സ്റ്റബിലിറ്റിമാനദണ്ഡം നമ്മൾ കണ്ടല്ലോ അടുത്തതായി നമുക്ക് നോക്കേണ്ടത് യി ഗ്രിഡിൽ പ്രൊപോഗേറ്റ് ചെയ്യുന്ന ഇലക്ട്രോമാഗ്നെറ്റിക് ഫീൽഡിന്റെ കൃത്യത ആണ് കൃത്യത പരിഗണിക്കുമ്പോൾ നമുക്ക് ഒരു ചോദ്യം ചോദിക്കാം അതായത് ഡിസ്പെർഷൻ കൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ എന്താണ് ആദ്യം വരുന്നത് വിദ്യാർത്ഥി ഫ്രീക്വൻസി ഡിപെണ്ടെന്റ് അതേ ശരിയാണ് പ്രായോഗികമായ അർഥത്തിൽ എന്ത് സംഭവിക്കുന്നത് വ്യത്യസ്ത ഫ്രീക്വൻസികൾ വിദ്യാർത്ഥി വെലോസിറ്റി വ്യത്യസ്ത വെലോസിറ്റികളിൽ അതായത് വ്യത്യസ്ത ഫ്രീക്വൻസികൾവ്യത്യസ്ത സ്പീഡിൽ സഞ്ചരിക്കും ഇത് എല്ലാർക്കും അറിയാവുന്ന ഭൌതിക പ്രതിഭാസം ആണ് ഇത് വളരെ എളുപ്പം ആണ് ഉദാഹരണമായി റെയിൻബോ ഉണ്ടാവുന്നത് ലൈറ്റ് വ്യത്യസ്ത സ്പീഡിൽ സഞ്ചരിക്കുന്നുവെള്ളത്തുള്ളികൾ അത് ഡിസ്പെർസ് ചെയ്യുന്നു അവിടെ ന്യൂമറിക്കൽ ഡിസ്പെർഷൻ നടക്കുന്നുണ്ടോ അങ്ങനെ സംഭവിക്കാം ഒന്ന് ഭൌതികമായ ഡിസ്പെർഷൻ ആണ് മറ്റേത് ന്യൂമറിക്കലും ഞാൻ ഫ്രീ സ്പേസിലൂടെ ഉള്ള വേവ് പ്രൊപോഗേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിക്കുക എന്നാൽ അവിടെ ഭൌതിക ഡിസ്പെർഷൻ ഉണ്ടാകുമോ തീർച്ചയായും ഇല്ല പക്ഷെ ന്യൂമറിക്കൽ ഡിസ്പെർഷൻഉണ്ടാകാം ഞാൻ എങ്ങനെ FDTD നടപ്പിലാക്കും എന്നതിന് അനുസരിച്ചു ഇത് നല്ല കാര്യമാണോ ചീത്ത കാര്യം ആണോ തീർച്ചയായും ചീത്ത കാര്യം ആണ് പൊതുവായി പറഞ്ഞാൽ ഇത് നിങ്ങളുടെ കാൽകുലേഷന്റെ കൃത്യത നശിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട് നിങ്ങളുടെ വേവ്സ് വ്യത്യസ്ത സ്പീഡിൽ ആണ് സഞ്ചരിക്കുന്നതെങ്കിൽ അതേസമയം ഭൌതികമായി അവ ഒരേ സ്പീഡിൽ സഞ്ചരിക്കേണ്ടതുണ്ട് ഇതിനെയാണ് ന്യൂമറിക്കൽ ഡിസ്പെർഷൻഎന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിൽ ആണ് ഈ ന്യൂമറിക്കൽ ഡിസ്പെർഷൻ നടക്കുന്നത് നടക്കാത്തത് എന്ന് നമ്മൾ ഇപ്പോൾ കണ്ട് പിടിക്കണം ഇതാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോവുന്നത് നമുക്ക് ആദ്യം യഥാർത്ഥ സൊല്യൂഷൻ നോക്കാം ഈ കാൽക്യൂലേഷനിൽ എല്ലാം നമ്മൾ കുറെ വേവ് ഇക്വേഷനുകൾ ഉപയോഗിച്ചു കാരണം ഇത് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ് വേവ് ഇക്വേഷൻ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിനുള്ള സ്പേസിന്റെയും ടൈമിന്റെയും രണ്ടാമത്തെ ഡെറിവേറ്റീവ്സ് തന്നു ഇത് നമുക്ക് ഫോമിന്റെ സൊല്യൂഷൻ തന്നു ഇത് നമുക്കെല്ലാം അറിയാം RHS ആണ് ഈ ടെർമിനെ ഇവിടെ നമ്മൾ എന്ത് വിളിക്കും ഫേസറിന്റെ ഉള്ളിൽ വിദ്യാർത്ഥി ഫേസ് ശരിയാണ് ഇതാണ് ഫേസ് വിദ്യാർത്ഥി ok വേവ് സഞ്ചരിക്കുന്ന സ്പീഡ് എനിക്ക് കണ്ടു പിടിക്കണമെങ്കിൽ അതിനെ ഭൌതികമായി അറിയപ്പെടുന്നത് എന്താണ് വിദ്യാർത്ഥി എന്താണ് എന്താണ് ഫേസ് വെലോസിറ്റി നിങ്ങൾ കണ്ടു പിടിച്ചോ ശരിയാണ് ഫേസ് വെലോസിറ്റി കോൺസ്റ്റന്റ് ഫേസിന്റെ ലോകസ് ആണ് അതെങ്ങനെ എനിക്ക് കിട്ടും അതേ കോൺസ്റ്റന്റ് ഫേസ്എന്നാൽ ടൈമിന് അനുസരിച്ചു മാറാത്ത ഫേസ് ആണ് അതിനാൽ ചെയ്യും ആദ്യത്തെ ടെർമ് ഇത് തരും അത് എനിക്ക് തരും വാക്വത്തിൽ ഇത് c യോട് സമം ആവും എന്ന് നമുക്ക് അറിയാവുന്നതാണ് ന്യൂമറിക്കലി ഇതെന്താണ് എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം എന്ത് സമീപനം ആണ് നമ്മൾ സ്വീകരിക്കേണ്ടത് സൈധ്ദാന്തിക കണക്ക്കൂട്ടലിൽ നമ്മൾ എന്താണ് ചെയ്തത് തീർച്ചയായും ഫേസ് വെലോസിറ്റീസ്വാക്വത്തിൽ c ആയിരിക്കും എനിക്കിപ്പോൾ അതേ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടതുണ്ട് പക്ഷെ ഇപ്പോൾ ഒരു പ്രത്യേക ലോകത്ത് എവിടെയാണ് ഞാൻ ഫേസും ടൈമും ഡിസ്ക്രിടൈസ്ചെയ്യേണ്ടത് അപ്പോൾ എന്റെ സമീപനം എന്തായിരിക്കണം വിദ്യാർത്ഥി ഒരു പോയിന്റിൽ ഇരിക്കുന്നു പിന്നെ വിദ്യാർത്ഥി ഉപയോഗിക്കുന്ന പോയിന്റുകൾ പക്ഷെ പ്രത്യേക ലോകത്ത് എങ്ങനെ ഞാൻ അതിനെ കൊണ്ട് വരും വിദ്യാർത്ഥി ചിലത് ഉണ്ടാക്കുക ഈ മെത്തോഡ് ആണ് നമ്മൾ FDTD യിൽ പഠിക്കുന്നത് നമുക്ക് ടൈമിലും സ്പേസിലും ഫൈനൈറ്റ് ഡിഫറെൻസസ് ഉണ്ട് രണ്ടാമത്തെ ഡെറിവേറ്റീവും ഉണ്ട് ഇതെങ്ങനെയാണ് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ ഡെറിവേറ്റീവിനെ ഫൈനൈറ്റ് ഡിഫറെൻസസ്കൊണ്ട് അപ്രോക്സിമേറ്റ് ചെയ്യണം എന്ത് തരത്തിൽ ഉള്ള ഉത്തരം ആണ് കിട്ടുക ഉദാഹരണമായിആ അവസ്ഥയിൽ കോൺസ്റ്റന്റ് ഫേസിന്റെ ലോക്കസിലേക്ക് നോക്കുക ഇത് ലൈറ്റിന്റെ സ്പീഡ് ആണോ അഥവാ മറ്റെന്തെങ്കിലും ആണോ ഏത് അവസ്ഥയിൽ ആണ് FDTD യിൽ ഇലക്ട്രിക് ഫീൽഡ് ഒരു വേവ് പോലത്തെ സൊല്യൂഷൻ ആവുന്നത് എന്ന് നമ്മൾ മുമ്പ് നോക്കിയിട്ടുണ്ട് കുറാന്റ് സ്റ്റബിലിറ്റിമാനദണ്ഡം തൃപ്തിപ്പെട്ടിരിക്കുന്നിടത്തോളം കാലം കുറാന്റ് സ്റ്റബിലിറ്റി തൃപ്തിപ്പെടുമ്പോൾ എന്റെ E ഒരു വേവ് ആയി മാറും നമ്മൾ അത് ഡിറൈവ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ഊഹിക്കാം വേവ് പോലത്തെ സൊല്യൂഷൻ ആണ് ഇവിടെ കിട്ടുന്നത് ഇനീ ഞാൻ എന്ത് ചെയ്യും ഈ equation ഇവിടെ എഴുതാം എന്നിട്ട് ഫൈനൈറ്റ് ഡിഫറെൻസസ് കൊണ്ട് മാറ്റിസ്ഥാപിക്കാം നമുക്ക് അത് ചെയ്യാം ആദ്യത്തേത് സ്പേഷിയൽ ഡെറിവേറ്റീവ്spacial derivativeആണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ നൊറ്റേഷൻ ആണെന്ന് ഓർമിക്കുക n ടൈം ഇണ്ടെക്സ് ആണ് i സ്പേസ് ഇണ്ടെക്സുംഈഒരു ഷോർട് ഹാൻഡ് നൊറ്റേഷൻ ആണ് സ്പേസും ടൈമും ഡിസ്ക്രിടൈസ് ചെയ്യപ്പെടുന്ന ഒരു വേവ് പോലത്തെ സൊല്യൂഷൻ ആണ് ഇതെന്ന് നിങ്ങൾ ഓർമിക്കണം അതിനാൽ ഈ എക്സ്പ്രഷൻ ഇങ്ങനെ ആവും ഇത് ഇത്ര ലളിതമായി എഴുതാൻ കഴിയും എന്ന് നമ്മൾ വിചാരിച്ചില്ല പക്ഷെ അത് കിട്ടി ഞാൻ ആയി സെറ്റ് ചെയ്തപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം അവ പൂജ്യത്തിലേക്ക് നീങ്ങുമ്പോൾ എനിക്ക് ശരിയായ ഒരു സൊല്യൂഷൻ കിട്ടും ഞാൻ ഡിഫറെൻസസ് ചെറുതാക്കുന്തോറും യഥാർത്ഥ ഡെറിവേറ്റീവിനെ അപ്പ്രോക്സിമേറ്റ്ചെയ്യുകയാണ് അതിനാൽഈ എക്സ്പ്രഷന് എന്ത് സംഭവിക്കും എനിക്ക് ഇവിടെ എന്ത് കിട്ടും വിദ്യാർത്ഥി ഡെറിവേറ്റീവ് ഇത് നോക്കുക ഇത് ആയി മാറും എല്ലാം വെട്ടിക്കളയപ്പെടും k നിലനിൽക്കും അപ്പോൾ എനിക്ക് കിട്ടും നമ്മുടെ ഫേസ് വെലോസിറ്റി ആണ് പരിധിയിൽ എല്ലാം നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട് കാരണം ഇത് എനിക്ക് ഫേസ് വെലോസിറ്റിc യോട് സമമായി തരുന്നു ഇതാണ് നമ്മൾ പ്രതീക്ഷിച്ചത് ഉം ഉം ഫൈനൈറ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും നമ്മൾ ഇപ്പോഴും കുറാന്റ് അവസ്ഥയിൽ ആണ് അത് കൊണ്ട് ആണെന്ന് പറയാം പക്ഷെ അവ ഫൈനൈറ്റ് നമ്പറുകൾ ആണ് അതായത് കുറാന്റ് മാനദണ്ഡം സാറ്റിസ്ഫൈഡ്അല്ലെങ്കിൽ എനിക്ക് വേവ് നെ പോലുള്ള സൊല്യൂഷൻ കിട്ടില്ല ഇപ്പോൾ ഞാൻ കുറാന്റ് കണ്ടിഷനിലാണ് പക്ഷെ ഇവ ഫൈനൈറ്റ് ആണ് ഈ കണ്ടിഷൻ ഇനിയും സാറ്റിസ്ഫൈഡ് ആവുമോ ആദ്യം നമുക്ക് ഇവിടെയുള്ള ഈ എക്സ്പ്രഷനിലേക്ക് നോക്കാംഎനിക്ക് ഇനീ സൈൻ തീറ്റ യെ തീറ്റ കൊണ്ട് മാറ്റിസ്ഥാപിക്കാൻ കഴിയില്ല അതിനാൽ അത് ശരിയായിരിക്കും അല്ലകുറാന്റ് സ്റ്റബിലിറ്റിസാറ്റിസ്ഫൈഡ് ആണെന്ന് നമുക്ക് അനുമാനിക്കാം ഉം ഉം ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് ചിന്തിക്കാനാവുമോ അവ പൂജ്യം ആവാനുള്ള പ്രവണത ഇല്ല അവ ഫൈനൈറ്റ് ആണ് എങ്കിലും എനിക്ക് കിട്ടുന്നു ഈ റിലേഷൻ സാറ്റിസ്ഫൈഡ് ആവണം കാരണം വേവ് ഇക്വേഷൻ ഡിസ്ക്രിടൈസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇത് ഡിറൈവ് ചെയ്തത് അതിനാൽ ഇത് സാറ്റിസ്ഫൈഡ് ആവണം ഈ കേസിൽ കിട്ടിയത് പോലുള്ള റേഷിയോ കിട്ടുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു റിലേഷൻ നിങ്ങൾക്ക് ചിന്തിക്കാനാവുമോ ആയി എടുത്തപ്പോൾ നമുക്ക് എന്ന റേഷിയോ ഇവിടെ കിട്ടി ഫൈനൈറ്റ് നും നും ഈ റിലേഷൻ കിട്ടുമോ നമുക്ക് ഇവിടെയുള്ള ഈ എക്സ്പ്രഷൻനോക്കാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് ഓർമിക്കണം ഇതൊരു സൂചന ആണ് എന്റെ കയ്യിൽ ആൽഫ ഉണ്ടെങ്കിൽ അതിന്റെ അർഥം എന്താണ് ആൽഫ ഉണ്ടെങ്കിൽ ഇനി എനിക്ക് അഥവാ മാത്രം കിട്ടിയാൽ മതി കാരണം അവ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു ഞാൻ ആയി എടുത്തെന്നു വിചാരിക്കുക എങ്കിൽ എനിക്ക് മാത്രം വ്യക്തമാക്കിയാൽ മതി അതായത് തനിയെ കിട്ടും ആൽഫ ന്റെ ഏത് മൂല്യം കൊണ്ടാണ് ഈ റിലേഷൻ ലളിതമാക്കാൻ കഴിയുന്നത് എന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്നും സൂചന കിട്ടുന്നുണ്ടോ ഞാൻ ഈ എക്സ്പ്രഷനിലേക്ക് നോക്കിയാൽഈ ഇക്വേഷന്റെ സൊല്യൂഷൻ ആവണം എന്ന് നിർബന്ധവും ഇല്ല പക്ഷെ ഒരു പ്രത്യേക കേസിൽ ഇത് സമം ആവും ആണെങ്കിൽ എന്ത് സംഭവിക്കും ഞാൻ ഇപ്പോൾ ആയി സബ്സ്റ്റിട്യൂട്ട് ചെയ്താൽ ഇവ രണ്ട് വശത്തും സ്ഥിരതയുള്ളതാണോ ആ മൂല്യം ആയിരിക്കും ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ ഇത് അത് സാറ്റിസ്ഫൈ ചെയ്യും എന്താണ് ഡിസ്പ്പേർഷൻ ഇതാണ് ഡിസ്പ്പേർഷൻ റിലേഷൻരസകരം എന്ന് പറയട്ടെ ഇത് അഥവാ ന്റെ മൂല്യത്തെ ആശ്രയിക്കുന്നില്ല അങ്ങനെ സംഭവിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കില്ല അതിനാൽ എന്താണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഡിസ്ക്രിടൈസേഷൻ എന്ത് തന്നെ ആയാലും വേവ് ഞാൻ പ്രതീക്ഷിക്കുന്ന വേഗതയിൽ ആണ് സഞ്ചരിക്കുന്നത് ഫേസ് വെലോസിറ്റിയുടെയും സ്പീഡ് ഓഫ് ലൈറ്റ് ന്റെയും റേഷിയോ ഞാൻ ഇവിടെ പ്ലോട്ട് ചെയ്യട്ടെ ഞാൻ വാക്വം മാത്രമാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഈ റേഷിയോ 1 ആയിരിക്കണം ഇവിടെ 1 ആണ് ഞാൻ ഇവിടെ പ്ലോട്ട് ചെയ്യുന്നത് ആണ്ണ് വേവ് ലെങ്ത് ലേക്ക് നോർമലൈസ് ചെയ്യുന്നതിന് വേണ്ടി ഫ്രീക്വൻസി മാറുന്നതിനാൽ മാറേണ്ടി വരും ഞാൻ ഇത് ചെയ്യും ഈ ഇലക്ട്രോമാഗ്നെറ്റിക് വേവ് പോവുന്നു ആയാൽ എന്ത് തരത്തിൽ ഉള്ള കർവ് ആണ് ഞാൻ ഇവിടെ പ്രതീക്ഷിക്കേണ്ടത് നേർരേഖവളഞ്ഞ രേഖകോൺx ആക്സിസ് ന് വെർട്ടിക്കൽ ആയി y ആക്സിസിന്45 ഡിഗ്രി എന്ത് തരത്തിൽ ഉള്ള കർവ് ആണ് ഞാൻ പ്രതീക്ഷിക്കേണ്ടത് പരന്ന നേർരേഖ ഉത്തരം 1 ആയിരിക്കും എനിക്ക് ഇവിടെ വ്യത്യസ്ത മൂല്യങ്ങൾ ആവാം അതായത് 0 3അങ്ങനെ ഞാൻ ഒറിജിനെ സമീപിക്കുമ്പോൾ ഡിസ്ക്രിടൈസേഷൻകൂടുതൽ കൂടുതൽ സൂക്ഷ്മമാവും അത് ഇലക്ട്രോമാഗ്നെറ്റിക് വേവിന്റെ വേവ് ലെങ്ത് ആണ് ഏത് ഓമേഗ യും ആ വേവ് ലെങ്ത് നെ പരിവർത്തനം ചെയ്യുന്നു പക്ഷെ ആണെങ്കിൽ എന്ത് സംഭവിക്കും ഞാൻ ഇത് ഒന്നൂടെ ഇവിടെ എഴുതാം ആ സൈൻ ടെർമ് രണ്ട് വശത്തും റദ്ധാക്കപ്പെടും അപ്പോൾ എന്ത് ചെയ്യും ഇനി നിങ്ങൾ ഈ ട്രാൻസെൻഡൽ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് ഉം k ഉം തമ്മിലുള്ള റിലേഷൻ കണ്ട്പിടിക്കണം എനിക്ക് ഫേസ് വെലോസിറ്റി വേണം അതാണ് എനിക്ക് വേണ്ടത് ഇത് ന്യൂമറിക്കൽ ആയി സോൾവ് ചെയ്യേണ്ടതുണ്ട് കാരണം ഇത് ട്രാൻസെൻഡൽ ഇക്വേഷൻ ആണ് ആ കാൽകുലേഷൻ ഞാൻ ഇവിടെ കാണിക്കുന്നില്ല അത് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടുള്ളതല്ല ആണെന്ന് നമുക്ക് അറിയാം എനിക്ക് തികഞ്ഞ വേവ് സ്വഭാവം ലഭിക്കുന്നു ഈ ഗ്രാഫിൽ ഞാൻ കാണിക്കുന്നത് എന്താണ് ഞാൻ മികച്ച ഡിസ്ക്രിടൈസേഷനിലേക്ക് പോകുന്തോറും എന്ത് സംഭവിക്കും റേഷിയോ ഓഫ് Vp to c എന്തിനെ സമീപിക്കും വിദ്യാർത്ഥി 1 1 അതേഞാൻ എന്റെ ഡിസ്ക്രിടൈസേഷൻ കൂടുതൽ മികച്ചതക്കുമ്പോൾ ആൽഫ എന്ത് തന്നെ ആയാലും സൈൻ തീറ്റ തീറ്റ കൊണ്ട് മാറ്റപ്പെടും എന്നിട്ട് എല്ലാം റധ്ദാവും എല്ലാം എങ്ങനെയെങ്കിലും ഇവിടെ എത്തുമെന്ന് എനിക്ക് അറിയാം പക്ഷെ ഞാൻ ന്റെ ഫൈനൈറ്റ് മൂല്യത്തിലേക്ക് പോകുമ്പോൾ ന്റെ മൂല്യം വലുതാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്പ്രകടനം കുറയാൻ തുടങ്ങുന്നു അതിനാൽ ഇത് പോലെ ആവും അതായത് ആൽഫ 0 75 നോട് സമം ആയത് പോലെ ആവും ആൽഫ യുടെ മൂല്യം വീണ്ടും കുറച്ചു0 5 നോട് സമം ആക്കിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും വിദ്യാർത്ഥി ഇതിന്റെ കാരണം ഇതിന്റെ കാരണം വിദ്യാർത്ഥി കമ്പ്യൂട്ടേഷൻ കമ്പ്യൂട്ടേഷൻ കാര്യമായി ഒന്നും ചെയ്യുന്നില്ല ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ ഉം k ഉം തമ്മിലുള്ള ഒരു പ്രത്യേക റിലേഷൻ നിങ്ങൾക്ക് തരുന്നു ഐഡിയൽ കേസിൽ ഉം k ഉം തമ്മിലുള്ള റേഷിയോ c ആയിരിക്കും പക്ഷെ ഫൈനൈറ്റ് ആണെങ്കിൽ1 ന് തുല്യമായ ആൽഫയുമായി ബന്ധവും ഇല്ലെങ്കിൽ ന്റെ മൂല്യം c ക്ക് പകരം വേറെ എന്തെങ്കിലും ആയിരിക്കും ആ മറ്റെന്തെങ്കിലും വരുന്നത് ഇവിടെ നിന്നാണ് ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇതാണ് നിങ്ങളുടെ ന്യൂമറിക്കൽ ഡിസ്പെർഷൻ വേവ് c യെക്കാളും പതുക്കെ ആണ് സഞ്ചരിക്കുന്നത് അത് നമ്മൾ ഭൌതികമായി പ്രതീക്ഷിക്കുന്നതല്ല ഭൌതികമായി ഇത് വേവ് ആണ് ഞാൻ ഇവിടെ ഒരു മീഡിയം പോലും കൊടുക്കുന്നില്ല ഫ്രീ സ്പേസ് ആണ് വേവ് ലൈറ്റിന്റെ സ്പീഡിൽ സഞ്ചരിക്കേണ്ടതാണ് പക്ഷെ ഞാൻ ഫൈനൈറ്റ് ൽ സിമുലേറ്റ് ചെയ്യുന്നതിനാലും തിരഞ്ഞെടുതത്തിനാലും ആണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് ചുരുക്കിപറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ അഭികാമ്യം അല്ലാത്ത ഒരു കാര്യം ആണ് ഇതിനെ എനിക്ക് നിയന്ത്രിക്കണമെങ്കിൽ എനിക്ക് ഒരു നോബ് അഥവാ കുറെ നോബുകൾ വേണം എന്താണ് ആ നോബുകൾ അത് പറയൂ അതേ വിദ്യാർത്ഥി കഴിയില്ല Refer time 2309 തുടർന്നുള്ള ജോലിക്ക് നിങ്ങൾക്ക് കിട്ടുന്ന മൂല്യം വിദ്യാർത്ഥി അത് മുഴുവൻ കണ്ടെത്തുക അല്ല അത് ന്യൂമെറിക്കൽ കോൺവെർജൻസ്ആണ് ഒരിക്കൽ ഞാൻ എന്റെ ഫിക്സ് ചെയ്താൽ സൊല്യൂഷൻ കൺവെർജ് ചെയ്യുമോ എന്ന് ഞാൻ പരിശോധിക്കും അതല്ല ഞാൻ ഇപ്പോൾ പറയുന്നത് ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എന്റെ വേവിനു ന്യൂമറിക്കൽ ഡിസ്പെർഷൻ ഉണ്ടായിരിക്കും എന്ന് എനിക്ക് അറിയാം എനിക്ക് ആ പ്രതിഭാസത്തെ നിയന്ത്രിക്കണം എനിക്ക് എന്റെ വേവ് ഭൌതികമായി സഞ്ചരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ സ്പീഡിൽ ന്യൂമറിക്കലി സഞ്ചരിക്കേണ്ട ഈ പ്രതിഭാസം കുറക്കാൻ എന്റെ കയ്യിൽ എന്തൊക്കെ നോബുകൾ ആണ് ഉള്ളത് വിദ്യാർത്ഥി അത്കൊണ്ട് ആൽഫ ആണ് എനിക്ക് ഇത് കുറാന്റ് പാരാമീറ്റർ കൊണ്ട് പരിശോധിക്കാം ഞാൻ അതിലേക്ക് വരാം കുറാന്റ് പാരാമീറ്റർ ഒരു നോബ് ആണ് വേറെ ഏതെങ്കിലും നോബ് ഡിസ്ക്രിടൈസേഷൻ ഡിസ്ക്രിടൈസേഷനും പിന്നെ കുറാന്റ് പാരാമീറ്റർ ആൽഫ 1 പക്ഷെ ഞാൻ ഇവിടെ ഒരു ചോദ്യചിഹ്നം ഇടുകയാണ് എന്തിനാണെന്ന്പറയാം ചുരുക്കിപറഞ്ഞാൽകുറാന്റ്പാരാമീറ്റർനെയുംഡിസ്ക്രിടൈസേഷനെയും മാറ്റുന്നതിലൂടെ എന്റെ സിമുലേഷനിൽ എത്ര ന്യൂമറിക്കൽ ഡിസ്പെർഷൻ നടക്കും എന്ന് എനിക്ക് പരിശോധിക്കാം മറ്റെന്ത് സംഭവിച്ചാലും നിങ്ങളുടെ കുറാന്റ് പാരാമീറ്റർ നേക്കാൾ കുറവാണെങ്കിൽ നിങ്ങൾ ന്യൂമറിക്കൽ ഡിസ്പെർഷൻ നേരിടേണ്ടി വരും ആ കേസിൽ അത് നേരിടേണ്ട ഒരേയൊരു വഴി ഡിസ്ക്രിടൈസേഷൻ മികച്ചതാക്കുകയാണ് നിങ്ങൾ ചെറുതാക്കിയാൽ മാത്രം പോരാ ഉം ചെറുതാക്കണം അത്കൊണ്ട് നിങ്ങളുടെ RAMമെമ്മറി ആവശ്യതകൾ കൂടുന്നു നിങ്ങളുടെ കമ്പ്യൂട്ടേഷൻ ടൈം കൂടുന്നു